അസംബ്ലി ഡ്രോയിംഗ്തുടരുന്നു ഹലോ കഴിഞ്ഞ പ്രഭാഷണത്തിൽ ചില അടിസ്ഥാന അസംബ്ലി രീതികളെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു അവ സോളിഡ് വർക്കുകളിൽ ലഭ്യമായ ചില സ്റ്റാൻഡേർഡ് മേറ്റ് കളായിരുന്നു ഇപ്പോൾ ഈ പ്രഭാഷണത്തിൽ സോളിഡ് വർക്ക്സിൽ ഫീച്ചർ ചെയ്യുന്ന രീതികളുടെ ചില നൂതന സവിശേഷതകൾ മനസിലാക്കാൻ പോകുന്നു അതിനാൽ ഇപ്പോൾ നമുക്ക് മേറ്റ് കളെ കാണാം സ്റ്റാൻഡേർഡ് മേറ്റ് കളെക്കുറിച്ച് നിങ്ങൾ ഇവിടെ പഠിച്ചു ഇപ്പോൾ ഇവിടെ അടുത്ത കാര്യങ്ങൾ അഡ്വാൻസ്ഡ് മേറ്റ്സ് ആണ് അതിനാൽ ഇപ്പോൾ നിങ്ങൾ ഈ പ്രഭാഷണത്തിൽ ഈ അഡ്വാൻസ്ഡ് മേറ്റ്സ് കളെക്കുറിച്ച് ഓരോന്നായി കാണാം ഇവിടെ ലോഡ് ചെയ്ത ചില ഭാഗങ്ങൾ നമുക്ക് നോക്കാം ഇവിടെ ആദ്യത്തെ മേറ്റ് പ്രൊഫൈൽ മേറ്റ് ആണ് ഈ പ്രൊഫൈൽ മേറ്റ് ൽ രണ്ട് പ്രൊഫൈലുകൾക്കോ രണ്ട് ഉപരിതലങ്ങൾക്കോ പരസ്പരം വിന്യസിക്കുന്നതിന് സെന്റർ ജ്യാമിതീയ കേന്ദ്രം വിന്യസിക്കാൻ ഈ പ്രൊഫൈൽ മേറ്റ് ൽ നിങ്ങളെ അനുവദിക്കുന്നു ഉദാഹരണത്തിന് നമുക്ക് ഈ പ്രത്യേക പ്രൊഫൈൽ പരിശോധിക്കാം ഈ ചതുരാകൃതിയിലുള്ള പ്രൊഫൈലും ഈ റോഡിന്റെ സർക്കിൾന്റെ പ്രൊഫൈൽ സെന്റർറൂം ഇപ്പോൾ ഇത് സ്വപ്രേരിതമായി അവ രണ്ടും പരസ്പരം വിന്യസിക്കുന്നു ഇവ രണ്ടും പരസ്പരം യോജിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഈ വലിയ മുഖം ഈ വലിയ ദീർഘചതുരത്തിന് മുകളിലൂടെ വിന്യസിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങൾക്ക് വീണ്ടും കാണാൻ കഴിയും അതിനാൽ നിങ്ങൾ മേറ്റ് ലേക്ക് പോകും വിപുലമായ മേറ്റ് കളിലേക്ക് പോകും തുടർന്ന് ഇത് ഇവിടെ പ്രൊഫൈൽ കേന്ദ്രമാണ് അതിനാൽ ഈ പ്ലേറ്റ് വിന്യസിക്കുന്നത് നമുക്ക് കാണാം ഈ മുഖത്തിന്റെ പ്ലേറ്റ് സെന്റർ ഈ വലിയ ഒന്നിലേക്ക് വിന്യസിക്കപ്പെടുന്നു എന്നിരുന്നാലും ഇത് ഫ്ലിപ്പു ചെയ്യുന്നതിന് ഇത് വിപരീതമായി കാണാം വിന്യാസം വിപരീതമാക്കാനുള്ള വിന്യാസ ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ട് ഇത് വിരുദ്ധ വിന്യാസമാണ് അതിനാൽ ഇവിടെ ശരിയായി വിന്യസിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം അതിനാൽ ഇതാണ് പ്രൊഫൈൽ സെന്റർ അടുത്തതായി നമുക്ക് ഇവിടെയുള്ളത് സിമെട്രിക് മേറ്റ് ആണ് രണ്ട് ഇനങ്ങൾ നീക്കാൻ സിമെട്രിക് മേറ്റ് നമ്മളെ അനുവദിക്കുന്നു രണ്ട് ഘടകങ്ങൾ ഒരു സിമെട്രിയായി ഒരു പ്രതലത്തെ ആസ്പദമാക്കി മിറർ ചെയ്തതുപോലെ നമുക്ക് അവയെ ജോടിയാക്കാം

അതിനാൽ അടുത്ത മേറ്റ് നെക്കുറിച്ച് നമ്മൾ സംസാരിക്കും വിപുലമായ മേറ്റ് ൽ സിമെട്രിക് മേറ്റ് നെക്കുറിച്ചാണ് ഒരു റഫറൻസിനൊപ്പം രണ്ട് ഘടകങ്ങളും പരസ്പരം സിമെട്രിയിൽ പെരുമാറാൻ സിമെട്രിക് മേറ്റ് അനുവദിക്കുന്നു അതിനാൽ നിങ്ങൾ ഇവിടെ കാണും ഇതിനായി ജ്യാമിതി സജ്ജമാക്കാം നിങ്ങൾ ഈ പ്രൊഫൈൽ സെന്റർ നീക്കംചെയ്യും അതിനാൽ ഇവിടെ നമുക്ക് ഫിക്സ്ചർ അസംബ്ലി പോലുള്ള ചില ഫിക്സ്കൾ ഉണ്ട് അതിനാൽ നമുക്ക് ഇവിടെ കാണാം ഈ പ്ലേറ്റ് ഈ ഷാഫ്റ്റിനെ ചുറ്റുന്നു ഇത് ഈ ഷാഫ്റ്റിനെ ചുറ്റുന്നു അതിനാൽ നമുക്ക് ഇവിടെ സിമെട്രിക് മേറ്റ് പരിശോധിക്കാം അതിനാൽ നിങ്ങൾ അഡ്വാൻസ്ഡ് സിമെട്രിയിലേക്ക് പോകും അതിനാൽ രണ്ട് കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ ഈ സിമെട്രിക് മേറ്റ് നമ്മളെ അനുവദിക്കുന്നു അതിനാൽ നമുക്ക് ആവശ്യമുള്ള ഒന്ന് നമ്മുടെ പരിധികൾ സിമെട്രി ആയിരിക്കേണ്ട സിമെട്രിക് പ്ലെയിൻ ആവശ്യമാണ് അതിനാൽ നമുക്ക് ഈ പ്രതലം തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന ഈ പ്രതലങ്ങളിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം നമുക്ക് ഈ ഫ്രണ്ട് പ്ലെയിൻ മധ്യത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാം ഇവിടെ രണ്ട് ഇനങ്ങൾ തിരഞ്ഞെടുക്കാൻ നിങ്ങളെ അനുവദിക്കുന്ന സിമെട്രിക് പ്ലെയിൻ നിങ്ങൾ തിരഞ്ഞെടുക്കും ഒന്നാമത്തേത് പ്രതലത്തെക്കുറിച്ച് ഒരു റഫറൻസ് സജ്ജമാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങൾ പ്രതലം കാണും അതിനാൽ നിങ്ങൾ മേറ്റ് ലേക്ക് പോകുംതുടർന്ന് സിമെട്രിക് പ്ലെയിൻ ലേക്ക് പോകാം സിമെട്രിക് പ്ലെയിൻ ലെ സിമെട്രിക് മേറ്റ് ഇവിടെ രണ്ട് കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ അനുവദിക്കുന്നു നമുക്ക് കാണാൻ കഴിയും ഇതാണ് സിമെട്രിക് പ്ലെയിൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രണ്ട് ഘടകങ്ങൾക്കിടയിലുള്ള മുൻഗണനാ തലമാണിത് നമുക്ക് ഒരു പ്രതലം തിരഞ്ഞെടുക്കാം പ്രതലം കാണാൻ നിങ്ങളെ പ്രാപ്തമാക്കും നമുക്ക് ഈ തലം തിരഞ്ഞെടുക്കാം രണ്ട് ഘടകങ്ങൾക്കായി നിങ്ങൾ ഈ മുഖം തിരഞ്ഞെടുത്ത് ഓകെ ക്ലിക്കുചെയ്യുക വീണ്ടും ഓകെ ഇവിടെ ലഭ്യമായ അടുത്ത മേറ്റ് സിമെട്രിക് മേറ്റ് ആണ് നിങ്ങൾ മേറ്റ് ലേക്ക് പോകും കൂടാതെ നിങ്ങൾ വിപുലമായ മേറ്റ് ലേക്ക് പോകും തുടർന്ന് സിമെട്രിയിലേക്കും അതിനാൽ സിമെട്രിക് മേറ്റ് ൽ നമുക്ക് രണ്ട് ചെറിയ വിൻഡോകൾ കാണാം അതിനാൽ അവയിലൊന്ന് ആദ്യം സിമെട്രിക് തിരഞ്ഞെടുക്കുക നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രണ്ട് ഇനങ്ങളുടെ റഫറൻസായിരിക്കും സിമെട്രിക് പ്ലെയിൻ അതിനാൽ ഈ റഫറൻസ് പ്ലെയിനിനായി നമുക്ക് ഈ പ്ലെയിനും സിമെട്രിക് ആകാൻ ആഗ്രഹിക്കുന്ന രണ്ട് ഇനങ്ങളും തിരഞ്ഞെടുക്കാം അതിനാൽ ഓകെ ക്ലിക്കുചെയ്യും ഇപ്പോൾ ഈ പ്രത്യേക മുഖം നമുക്ക് കാണാൻ കഴിയും കൂടാതെ ഈ റഫറൻസ് തലം ഈ മുഖം സിമെട്രിയാണ് അതിനാൽ അവയിലൊന്ന് നിങ്ങൾ തിരിക്കുമ്പോൾ മറ്റൊന്ന് പരസ്പരം സിമെട്രിയായി പ്രവർത്തിക്കുന്നു നമുക്ക് വീണ്ടും വിശദാംശങ്ങൾ കാണാം ഇവിടെ വലത് ബട്ടൺ ക്ലിക്കുചെയ്ത് എഡിറ്റുചെയ്യുക ഇവിടെ ലഭ്യമായ അടുത്ത മേറ്റ് വിഡ്ത് മേറ്റ് ആണ് അതിനാൽ മുമ്പത്തെവ ഇല്ലാതാക്കാം സിമെട്രിക് മേറ്റ് ഈ പ്രത്യേക ലാച്ച് തരത്തിലുള്ള വസ്തു അവിടെയുള്ള ഏത് വെബിലേക്കും ചലിപ്പിക്കാനാകുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അത് ഇപ്പോൾ ഫിക്സ് ചെയ്തിട്ടില്ല ഈ ലാച്ച് ഷാഫ്റ്റിന്റെ മധ്യഭാഗത്തായിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക നമ്മുക്ക് അഡ്വാൻസ്ഡ്മേറ്റ് ഉണ്ട് അതിനെ വിഡ്ത് എന്ന് പറയുന്നു നമ്മൾ അഡ്വാൻസ് മേറ്റ് വിഡ്ത്തിലേക്കു പോകുന്നു ഇവിടെ വീണ്ടും നിങ്ങൾക്ക് രണ്ട് ചെറിയ വിൻഡോകൾ ഉണ്ട് വീതി തിരഞ്ഞെടുക്കലിനുള്ള റഫറൻസാണിത് നിങ്ങൾ അതിന്റെ റഫറൻസ് 1 റഫറൻസ് 2 തിരഞ്ഞെടുക്കുകയും മധ്യഭാഗത്തായിരിക്കേണ്ട ഇനം പറയുകയും ചെയ്യും നിങ്ങൾ അത് ക്ലിക്കുചെയ്തുകഴിഞ്ഞാൽ ഇത് മധ്യഭാഗത്ത് ഉറപ്പിച്ചിരിക്കുന്നതായി കാണാം അത് ഈ പ്രതലത്തിനും ഈ പ്രത്യേക പ്രതലത്തിനും നടുവിലാണ് അതിനാൽ ഇതാണ് വിഡ്ത് മേറ്റ് അതിനനുസൃതമായി ബാക്കി വിപുലമായ മേറ്റ് കളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കും നമുക്ക് ഈ ഡിസ്റ്റൻസ് മേറ്റ് പരിശോധിക്കാം ഇതിനെ ഡിസ്റ്റൻസ് ലിമിറ്റെന്നും ആംഗിൾ ലിമിറ്റെന്നും വിളിക്കുന്നു നിങ്ങൾ ഇത് പരിശോധിക്കും ഒന്നാമതായി നമുക്ക് ഇപ്പോൾ ഉള്ള ഈ വിഡ്ത് മേറ്റ് ഇല്ലാതാക്കാം നമുക്ക് ഡിസ്റ്റൻസ് ലിമിറ്റിലേക്കു പോകാം ഇപ്പോൾ നമ്മൾ നിങ്ങളെ കാണിച്ചതുപോലെ ഷാഫ്റ്റിനൊപ്പം നീങ്ങാൻ കഴിയും അതിന് പരിധിയൊന്നുമില്ല അതിനാൽ ഈ ലാച്ചിലേക്ക് പരിധി നിശ്ചയിക്കാൻ നിങ്ങൾ ഇതിന് മുകളിൽ ക്ലിക്കുചെയ്യും ഇത് നിങ്ങൾക്ക് പരമാവധി പരിധി നൽകുന്നു മറ്റൊന്ന് ഇത് ഏറ്റവും കുറഞ്ഞ മൂല്യവും അതിനാൽ ഈ പ്രതലവും ഈ പ്രതലവും തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഇവ രണ്ടും തമ്മിലുള്ള പരമാവധി ദൂരവും ഇവ രണ്ടും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരവും നിങ്ങൾ തിരഞ്ഞെടുക്കും അതിനാൽ നമ്മൾ 0 49 തിരഞ്ഞെടുക്കുന്നു ഇവിടെ അത് 0 ആണ് ഓകെ ക്ലിക്കുചെയ്യുക അതിനാൽ ഈ പ്രതലവും ഈ പ്രതലവും തമ്മിലുള്ള പരിധി നമ്മൾ നിശ്ചയിച്ചിരിക്കണം ഏറ്റവും കുറഞ്ഞ പരിധി 0 ആയിരുന്നു ഈ 0 മൂല്യത്തിനപ്പുറം നീങ്ങാൻ കഴിയില്ല പരമാവധി പരിധി 0 49 ആയിരുന്നു അതിനാൽ ഇത് പരമാവധി ദൂരം 0 49 വരെ സജ്ജമാക്കി ഇതാണ് ദൂരപരിധി അതുപോലെ നിങ്ങൾക്ക് ഒരു ആംഗിൾ പരിധിയും ഉണ്ട് ആംഗിൾ പരിധി സജ്ജീകരിക്കുന്നതിന് നിങ്ങൾ വീണ്ടും രണ്ട് റഫറൻസ് പ്രതലങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഇതാണ് ആംഗിൾ ഈ പ്രതലവും ഈ പ്രതലവും നമ്മൾ തിരഞ്ഞെടുക്കും ഞാൻ ഒരു മൂല്യം സജ്ജമാക്കുകയാണ് അതുപോലെ ദൂരപരിധിക്ക് സമാനമാണ് ഇവിടെ ഒരു അംഗുലർ പരിധിയുണ്ട് അതിനാൽ നമ്മൾ വിപുലമായ മേറ്റ് ലേക്ക് പോകും നമുക്ക് ഇവിടെ ആംഗിൾ പരിധികൾ കാണാം അതിനാൽ ദൂരപരിധിയിലെന്നപോലെ വീണ്ടും രണ്ട് തിരഞ്ഞെടുക്കലുകൾ ഉണ്ട് നമുക്ക് ഈ പ്രതലം തിരഞ്ഞെടുത്ത് പരമാവധി മൂല്യവും കുറഞ്ഞ മൂല്യവും തിരഞ്ഞെടുക്കും നമുക്ക് ഇത് 30 ആക്കാം ഇത് 180 ആക്കാം നമ്മൾ ഇത് 30 മാത്രം ആക്കി നിർത്തുന്നു ഓകെ ക്ലിക്കുചെയ്യുക ഇതിന് പൂർണ്ണമായി തിരിക്കാൻ കഴിയാത്തത് നമുക്ക് കാണാം നമുക്ക് ഇത് ശരിയാക്കാം ഫിക്സ് ൽ ക്ലിക്കുചെയ്യുക ദൂരപരിധിക്ക് സമാനമായി അഡ്വാൻസ്ഡ് മേറ്റ് കളിലും നമുക്ക് ഇവിടെ ഒരു കോണീയ പരിധിയുണ്ട് ഇത് കോണീയ പരിധിക്കുള്ളതാണ് ഇത് വീണ്ടും കോണുകൾ സജ്ജീകരിക്കേണ്ട രണ്ട് റഫറൻസ് പ്രതലം സജ്ജമാക്കാൻ ആവശ്യപ്പെടുക നമുക്ക് ഈ പ്രതലം തിരഞ്ഞെടുത്ത് ടോപ് പ്ലെയിൻ എന്ന് പറയാം നമ്മൾ ഒരു മൂല്യം സജ്ജമാക്കും അത് ഏറ്റവും ഉയർന്നതും കുറഞ്ഞതും നമുക്ക് മിനിമം ആയി 30 തിരഞ്ഞെടുത്ത് പരമാവധി മൂല്യമായി 180 സെറ്റ് ചെയ്യാം ഇപ്പോൾ ഈ കോണീയ ദിശയിൽ ഒരു നിയന്ത്രണ ചലനം കാണിക്കുന്നത് നമുക്ക് കാണാം അതിനാൽ വിപുലമായ മേറ്റ് കളിലെ ഈ കോണീയ പരിധി ഉപയോഗിച്ച് ഈ പരിധികൾ സജ്ജീകരിച്ചിരിക്കുന്നു ഇത് കോണീയ പരിധികളായിരുന്നു ഇവിടെ ലഭ്യമായ മറ്റ് മേറ്റ് കൾ പാത്ത് മേറ്റ് ലീനിയർ കപ്ലർ എന്നിവ ഒരു നൂതന മേറ്റ് കളാണ് മറ്റേതെങ്കിലും ജ്യാമിതിയിൽ അത് അനുവദിക്കുക

ചുമ്മ കളയുക വിപുലമായ മേറ്റ് ൽ ലഭ്യമായ മറ്റ് മേറ്റ് കൾ പാത്ത് മേറ്റ് ആണ് പാത്ത് മേറ്റ് നെ സംബന്ധിച്ചിടത്തോളം ഈ പന്ത് ഈ വളഞ്ഞ സ്ലൈഡിലേക്ക് നീങ്ങേണ്ടതാണെന്ന് ഈ ജ്യാമിതിയിൽ നമുക്ക് കാണാം ഇത് സാധ്യമാക്കുന്നതിന് നിങ്ങൾ പാത്ത് മേറ്റ് തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അതിനാൽ ഈ സ്ലൈഡിന്റെ മധ്യ അക്ഷത്തിൽ സ്ലൈഡുചെയ്യാൻ ഈ പന്തിന്റെ മധ്യഭാഗം ആവശ്യമാണ് ഇതിന്റെ കേന്ദ്രവും ഈ പ്രത്യേക വക്രത്തിന്റെ മധ്യരേഖയും നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയില്ല അത് പ്രാപ്തമാക്കുന്നതിന് നിങ്ങൾ ഈ പന്തിലേക്ക് പോകും നിങ്ങൾ സ്കെച്ച് ഭാഗം തിരഞ്ഞെടുക്കുകയും അത് കാണിക്കുകയും ചെയ്യും അതുപോലെ തന്നെ സ്വീപ്പിലെ ഈ പ്രത്യേക സ്ലൈഡിൽ നിങ്ങൾ സ്കെച്ചിലേക്ക് പോകും അതിനാൽ ഇപ്പോൾ നമുക്ക് വളവും ഇതിന്റെ കേന്ദ്രവും കാണാൻ കഴിയും ഇപ്പോൾ പാത്ത് മേറ്റ് ൽ ഈ പന്തിന്റെ മധ്യഭാഗത്തുള്ള ശീർഷകവും അതിലൂടെ സഞ്ചരിക്കേണ്ട പാതയും പാത്ത് മേറ്റ് നമ്മോട് ആവശ്യപ്പെടുന്നു അതിനാൽ ഈ പന്തിന്റെ മധ്യഭാഗത്തേക്കുള്ള പാത വെർട്ടെക്സും ഇപ്പോൾ കാണാത്തതിനാൽ പാതയും തിരഞ്ഞെടുക്കാം നമ്മൾ ഇവിടെ സജീവമാക്കുകയും സ്കെച്ച് ചെയ്യുകയും കാണിക്കുകയും ചെയ്യും ഇപ്പോൾ വീണ്ടും ഈ പാത ഓകെ ക്ലിക്കു ചെയ്യുക ഇപ്പോൾ ഈ പന്തിന്റെ മധ്യഭാഗം സ്ലൈഡിന്റെ ഈ സ്പ്ലൈനിലേക്ക് വിന്യസിച്ചിരിക്കുന്നതായി നമുക്ക് വളഞ്ഞ സ്ലൈഡ് കാണാം നിങ്ങൾക്ക് ആ രേഖാചിത്രങ്ങൾ മറയ്ക്കാൻ കഴിയും ഈ വളഞ്ഞ സ്ലൈഡിൽ പന്ത് യോജിക്കുന്നതായി നമുക്ക് കാണാം അത് കാണുന്നതിന് നമുക്ക് ഇത് സുതാര്യമാക്കാം ഈ സുതാര്യതയിൽ നിങ്ങൾ ഇവിടെ വലത് ബട്ടൺ ക്ലിക്കു ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ പന്ത് ഇതിലേക്ക് നീങ്ങുന്നത് എന്നിരുന്നാലും ഈ പന്താണ് ആദ്യം ഇതിലേക്ക് കൊണ്ടുവന്നതെന്നും അതിനു ശേഷമാണ് ഈ പ്രതലമെന്നും നമുക്കറിയാം ഇത് ഇതിനകം പരിഹരിച്ചിരിക്കുന്നു നമുക്ക് ഇതിനെ ഫ്ളോട്ട് ചെയ്യിക്കാം എന്നിട്ട് ഇത് ശരിയാക്കാം ഇപ്പോൾ ഈ പന്ത് ഈ സ്ലൈഡിലേക്ക് നീങ്ങുന്നത് നിങ്ങൾക്ക് കാണാം പാത്ത് മേറ്റ് ഉപയോഗിച്ച് ഇത് സാധ്യമായിരുന്നു ലഭ്യമായ അടുത്ത നൂതന മേറ്റ് നെ നമുക്ക് നോക്കാം അതാണ് ഒരു ലീനിയർ കപ്ലർ മറ്റേതെങ്കിലും ജ്യാമിതിയിൽ നമ്മൾ അത് പരിശോധിക്കും നമുക്ക് ഇത് ലോഡുചെയ്യാം ഇപ്പോൾ ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യുന്നു നമ്മൾ ലീനിയർ കപ്ലറിനായി ഘടകങ്ങൾ ചേർക്കാൻ പോകുന്നു ലോഡുചെയ്യുന്നു ഇവിടെ നമുക്ക് കുറച്ച് ചക്രങ്ങളും കുറച്ച് റെയിൽ ട്രാക്കുകളും ഉണ്ട് ലീനിയർ ഫാഷനിൽ രണ്ട് ഇനങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ ലീനിയർ കപ്ലർ അനുവദിക്കുന്നു നമുക്ക് അത് പരിശോധിക്കാം നമുക്കു ഇത് ഒന്നിന് മുകളിൽ ടാൻജൻറ് ആയി നിർമിക്കാം നാം ഘടകങ്ങൾ ചേർക്കാൻ പോകുന്നു ചില ഭാഗങ്ങൾ തിരഞ്ഞെടുക്കുക ചക്രം ട്രാക്ക് വീൽ ടോപ്പ് wheel a track and wheel top എന്നിങ്ങനെയുള്ള ചില ഭാഗങ്ങൾ നമുക്ക് ഇവിടെയുണ്ട് ഈ ചക്രത്തിലേക്ക് ഈ ടോപ്പ് ഘടിപ്പിക്കാം നമുക്ക് അത് ഉണ്ടാക്കാം ഞാൻ അതിനെ ടാൻജെന്റ് ആക്കുന്നു ഇവിടെ നമുക്ക് ഈ ട്രാക്കും ഈ ചക്രവും ഉണ്ട് അതിനാൽ ഈ ലീനിയർ കപ്ലർ പ്രദർശിപ്പിക്കാൻ എനിക്ക് മറ്റൊരു ചക്രം ആവശ്യമാണ് ഈ മറ്റ് ചക്രത്തിലും നമ്മൾ ഇതുതന്നെ ചെയ്യും ഇപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ചക്രങ്ങൾ ലഭ്യമാണ് നമുക്ക് ഈ ചക്രങ്ങളെ ഈ റെയിൽ ട്രാക്കിലേക്ക് വിന്യസിക്കാം നമ്മൾ അതിനെ മേറ്റ് ആക്കും ഇപ്പോൾ നമ്മൾ ഘടകങ്ങൾ ചേർക്കാൻ പോകുന്നു ചില ഭാഗങ്ങൾ ഇവിടെ ലോഡുചെയ്യും ഇവിടെ നമുക്ക് ഒരു റെയിൽ ട്രാക്കും ഒരു ചക്രവും ഒരു വീൽ ഹോൾഡറും rail track a wheel and a wheel holder ഉണ്ട് അതിനാൽ ഈ ലീനിയർ കപ്ലെർ പ്രദർശിപ്പിക്കാൻ നമുക്ക് രണ്ട് ചക്രങ്ങൾ ആവശ്യമാണ് നമ്മൾ ഒരു പകർപ്പ് ഉണ്ടാക്കും നമുക്ക് ഈ ചക്രങ്ങൾ സജ്ജീകരിക്കാം ഈ ട്രാക്കുകൾക്കിടയിൽ ഈ ചക്രങ്ങൾ ഉണ്ടാകുന്നതിന് നമ്മൾ ഈ ചക്രങ്ങളെ ഈ റെയിൽ ട്രാക്കിലേക്ക് വീണ്ടും വിന്യസിക്കും നിങ്ങൾക്ക് വിഡ്ത് മേറ്റ് ഉപയോഗിച്ചുകൊണ്ട് റഫറൻസ് 1 ഉം റഫറൻസ് 2 വിന്റേയും സഹായത്താൽ സെന്ററിൽ കേന്ദ്രീകരിക്കുക സമാനമായി ഇവിടെയുമുണ്ട് നമ്മൾ ഇപ്പോൾ ഹെഡ് ചക്രങ്ങൾക്ക് മുകളിൽ വയ്ക്കും ഇപ്പോൾ നമുക്ക് ഘടകങ്ങൾ ചേർത്തത്തിലേക്കു പോകാം നമ്മൾ ഒരു ട്രെയിൻ ട്രാക്കും വീൽ കണക്ടറും എടുക്കും നമുക്ക് ഇവിടെ രണ്ട് ഇനങ്ങൾ ഉണ്ട് ഈ ലീനിയർ കപ്ലർ പ്രദർശിപ്പിക്കുന്നതിന് നമുക്ക് രണ്ട് വ്യത്യസ്ത ഇനങ്ങൾ ആവശ്യമാണ് റെയിൽ ട്രാക്കിൽ ഇവ രണ്ടും വിന്യസിക്കുക ഇവിടെ നമുക്ക് ഉള്ളത് ഈ സ്ലൈഡർ തരത്തിലുള്ളതാണ് ഇവ രണ്ടും പരസ്പരം സ്വതന്ത്രമാണ് ഇപ്പോൾ നമുക്ക് ഈ ലീനിയർ കപ്ലർ പരിശോധിക്കാം നമ്മൾ അഡ്വാൻസ്ഡ് മേറ്റ് ലേക്ക് പോകുന്നു ഇവിടെ നമുക്ക് ലീനിയർ കപ്ലർ ഉണ്ട് രണ്ട് പ്രത്യേക ഘടകങ്ങൾ തിരഞ്ഞെടുക്കാൻ ഇത് നിങ്ങളോട് ആവശ്യപ്പെടുന്നു നമുക്ക് ഈ പ്രതലവും ഈ പ്രതലവും രണ്ടെണ്ണം തിരഞ്ഞെടുക്കാം കൂടാതെ ഇവ രണ്ടും തമ്മിൽ ഒരു അനുപാതം ഉണ്ടാക്കുന്നു നമുക്ക് പരസ്പരം 1 1 എന്നിവ തിരഞ്ഞെടുക്കാം നമ്മൾ ഓകെ ക്ലിക്കു ചെയ്യും ഈ ഇനം ഒരു ദിശയിലേക്ക് നീക്കുമ്പോൾ മറ്റൊന്ന് സ്വയമേവ അതിലേക്ക് ജോടിയാക്കുകയും നിർദ്ദിഷ്ട അനുപാതത്തിൽ നീങ്ങുകയും ചെയ്യും നമുക്ക് അനുപാതം മാറ്റി പരിശോധിക്കാം നമ്മൾ സവിശേഷത ചേർക്കും നമ്മൾ അത് 1 5 എന്ന് പറയും ഇപ്പോൾ നമുക്ക് കാണാം അടുത്തത് കൂടുതൽ പ്രവർത്തിക്കുന്നത് 1 മുതൽ 1 5 വരെ അനുപാതത്തിൽ ഇത് ഒരു ലീനിയർ കപ്ലറാണ് ഇവിടെ നമ്മൾ ഈ നൂതന മേറ്റ് കളെ പൂർത്തിയാക്കി അടുത്ത പ്രഭാഷണത്തിൽ ബാക്കിയുള്ള മെക്കാനിക്കൽ മേറ്റ് കൾ പരിശോധിക്കും നാമെല്ലാവരും ഇതിനകം തന്നെ മെക്കാനിക്കലിൽ നിന്നുള്ള ഈ സ്ക്രൂ മേറ്റ് ഉം ഹിൻജ് മേറ്റ് ഉം പൂർത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ നൂതനമേറ്റ് കൾ പൂർത്തിയാക്കുകയും അടുത്ത ക്ലാസ്സിൽ നമ്മൾ ക്യാം സ്ലോട്ട് ഹിൻജ് ഗിയർ റാക്ക് പിനിയൻ സ്ക്രൂ എന്നീ മെക്കാനിക്കൽ മേറ്റ് കളെക്കുറിച്ചു പഠിക്കും ഈ സോളിഡ് വർക്കുകളിൽ ലഭ്യമായ ഈ നൂതന മേറ്റ് കളെ നിങ്ങൾ ഇപ്പോൾ പൂർത്തിയാക്കി പ്രൊഫൈൽ സെന്റർ സിമെട്രിക് വിഡ്ത് പാത്ത് മേറ്റ് ലീനിയർ കപ്ലർ ഡിസ്റ്റൻസ് ലിമിറ്റ് ആംഗിൾ ലിമിറ്റ് ഇവയെല്ലാം നിങ്ങൾ ഓരോന്നായി പൂർത്തിയാക്കിയിരിക്കുന്നു അടുത്ത പ്രഭാഷണത്തിൽ മെക്കാനിക്കൽ മേറ്റ് കളെക്കുറിച്ച് നമ്മൾ പഠിക്കും